ആശംസകൾ കോഴ്സ് ഡിസൈനിൻറെ വികസനഘട്ടവുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ 2 യൂണിറ്റ് 10 ലേക്ക് സ്വാഗതം കോഴ്സ് രൂപകല്പനക്കായി ഞങ്ങൾ ADDIE മോഡൽ അനുഗമിക്കുന്നു ADDIE മോഡലിന് വിശകലന ഘട്ടം ഡിസൈൻ ഘട്ടം വികസന ഘട്ടം തുടർന്ന് നടപ്പിലാക്കൽ ഘട്ടം വിലയിരുത്തൽ ഘട്ടം എന്നിവയുണ്ട് ADDIE മോഡലിന് കീഴിൽ ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കോഴ്സ് രൂപകൽപ്പനയ്ക്കായി ഞങ്ങളുടെ സ്വന്തം നടപടിക്രമങ്ങൾ നിർവചിക്കാൻ മാത്രമേ ഞങ്ങളെ സഹായിക്കൂ ആ പ്രക്രിയയുടെ ഘടകങ്ങൾ എന്തായിരിക്കണമെന്ന് മോഡൽ നിങ്ങളോട് പറയുന്നു നടപടിക്രമങ്ങളുടെ രൂപകൽപ്പനയും ഉള്ളടക്കം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയും പൂർണ്ണമായും നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ മൊഡ്യൂളിൽ എഞ്ചിനീയറിങ് കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ക്വിസുകൾ അസൈൻമെൻറ്കൾ ടെസ്റ്റുകൾ സെമസ്റ്റർ അവസാന പരീക്ഷകൾ എന്നിവയുടെ ഐറ്റം ബാങ്കുകൾ രൂപകൽപ്പന ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയ നമ്മൾ മനസ്സിലാക്കി മൂല്യനിർണയം ആണ് ശരിക്കും പ്രധാനം എന്ന് നാം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എൻറെ മൂല്യനിർണയ രീതി മോശമാണെങ്കിൽ ഞാൻ എൻറെ വിദ്യാർത്ഥികളിൽ നിന്നും മോശമായ പഠനം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് സ്വയമേവ ആശയവിനിമയം നടത്തുകയാണ് നിങ്ങളുടെ വിലയിരുത്തൽ ശരിയായി രൂപകൽപ്പന ചെയ്തിട്ടില്ലെങ്കിൽ സാധ്യതയുള്ള തൊഴിലുടമകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് വിദ്യാർത്ഥികൾ ഒന്നും പഠിക്കാൻ സാധ്യതയില്ല രൂപകൽപ്പന ചെയ്യാനും നിർവ്വഹിക്കാനും വളരെ എളുപ്പമുള്ള ഒന്നല്ല അല്ല വിലയിരുത്തൽ കഴിഞ്ഞ യൂണിറ്റിൽ നാം ഐറ്റം ബാങ്കുകളുടെ പങ്ക് പരിശോധിച്ചു തുടക്കത്തിൽ ധാരാളം ജോലികൾ ഫാക്കൽറ്റികളുടെ ഗ്ഗ്രൂപ്പുകൾക്ക് ചെയ്യേണ്ടതുണ്ട് എങ്കിലും ഒരിക്കൽ അത് ചെയ്തുകഴിഞ്ഞാൽ ഐറ്റം മാനേജുചെയ്യുന്നതിലൂടെ മൂല്യനിർണ്ണയത്തിൻറെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ടു തന്നെ ശരിയായി അധ്യാപകരുടെ ജോലി ഭാരം കുറയ്ക്കാൻ കഴിയും ഇപ്പോഴത്തെ യൂണിറ്റിൽ നാം വികസന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഇവിടെ നമ്മൾ ഒരു എൻജിനീയറിങ് കോഴ്സിന്റെ വികസനഘട്ടത്തിൻറെ ഉപപ്രക്രിയകളെ പറ്റിയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു എഞ്ചിനീയറിംഗ് ഇതര കോഴ്സാണെങ്കിൽ ചില പ്രക്രിയകൾ വ്യത്യസ്തമായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഉപപ്രക്രിയകൾ ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് അവ ചെറുതായി ശബ്ദാനന്തര രചന ചെയ്യുകയോ പരിഷ്കരിക്കുകയോ ചെയ്യണമെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് സ്വാഗതം എന്നാൽ വികസനഘട്ടത്തിൻറെ ആവശ്യകതൾ നിങ്ങൾ തിരിച്ചറിയണം വികസനഘട്ടനിർദേശ സാമഗ്രികളും കോഴ്സിന്റെ പഠന സാമഗ്രികളും വികസിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രാഥമിക വിഷയം എന്താണ് നിർദേശസാമഗ്രികൾ പ്രഖ്യാപിത കോഴ്സ് ഫലങ്ങളോ നൈപുണ്യങ്ങളോ നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഇൻസ്ട്രക്ടർ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നിർദ്ദേശസാമഗ്രികൾ കോഴ്സ് ഫലങ്ങൾ വളരെയധികം പ്രാപ്തികളിലേക്ക് വിശദീകരിച്ചിരിക്കുന്നു ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വികസിപ്പിക്കുന്നത് നിർദ്ദേശസാമഗ്രികൾ വികസിപ്പിച്ചെടുക്കുന്നുത് വിശകലനഘട്ടത്തിന്റെയും ഡിസൈൻഘട്ടത്തിന്റെയും ആവശ്യകത അനുസരിച്ചാണ് പ്രാപ്തികളും കോഴ്സ് ഫലങ്ങളും തിരിച്ചറിയുകയും സാമ്പിൾ പ്രതിനിധി മൂല്യനിർണ്ണയ ഇനങ്ങൾ സൃഷ്ടിക്കുകയും വിശകലനഘട്ടം ചെയ്യും ഒരു ടാക്സോണമിവർഗീകരണധർമ്മ പട്ടികയിൽ കോഴ്സ് ഫലങ്ങളും പ്രാപ്തികളും നാം കണ്ടെത്തുകയും ചെയ്യും ഡിസൈൻ ഘട്ടം പ്രധാനമായും വിലയിരുത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ നിർദ്ദേശസാമഗ്രികൾ ഞങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കും ഇത് പ്രാപ്തികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശയൂണിറ്റുകൾ പ്രകാരമാണ് ഒരു കോഴ്സിൽ ഏകദേശം 8 കോഴ്സ് ഫലങ്ങളുണ്ടെന്ന് പരിഗണിക്കുക ചില കോഴ്സ് ഫലങ്ങൾ 7 മണിക്കൂറോ 8 മണിക്കൂറോ എടുത്തേക്കാം അത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങൾ കോഴ്സ് ഫലങ്ങളെ വലിയ സാധ്യതകളോടെ നിരവധി പ്രാപ്തികളിലേക്ക് വിശദീകരിക്കുന്നു നിങ്ങൾ കോഴ്സ് യോഗ്യതാ വീക്ഷണകോണിൽ നിന്ന് കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് 10 മുതൽ 15 വന്നേക്കാം 15 പ്രാപ്തികളുണ്ടെങ്കിൽ 15 നിർദ്ദേശ യൂണിറ്റുകൾ ഉണ്ടാകും അതിനർത്ഥം ഒരു നിർദ്ദേശ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രാപ്തി ഉണ്ട് ഒരു കഴിവ് ഒരിക്കലും 5 ക്ലാസ് റൂം സെഷനുകളിൽ കൂടുതൽ എടുക്കില്ല ഒരു കഴിവ് അല്ലെങ്കിൽ പ്രാപ്തിക്കു വേണ്ടി പരമാവധി 5 ക്ലാസ് റൂം സെഷനുകൾ നാം പരിഗണിക്കുകയും അതനുസരിച്ചുള്ള നിർദേശസാമഗ്രികൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു എങ്ങനെ ഞാൻ എൻറെ ക്ലാസ് റൂം പ്രവർത്തനം ആരംഭിക്കും ക്ലാസ്സിൽ ഞാൻ എന്തുചെയ്യും എവിടെയാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ക്ലാസ് മുറിയിൽ ഏത് തരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തുന്നു അങ്ങിനെ പലതും ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് ഞങ്ങൾ നിർദ്ദേശ സാമഗ്രികൾ എഴുതുന്നു അതേസമയംപഠനമഗ്രികൾ പഠിതാക്കൾ സ്വയം ഉപയോഗിക്കുന്നതാണ് ഈ സാമഗ്രികൾ സാധാരണയായി പുസ്തകങ്ങളിൽ നിന്നും ഇന്റർനെറ്റ് ഉറവിടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു പൊതുവായി തുടക്കത്തിൽ തന്നെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് സിലബസ് നൽകുമ്പോൾ ഞങ്ങൾ പാഠപുസ്തകങ്ങൾ റഫറൻസ് പുസ്തകങ്ങൾ എന്നിവ തിരിച്ചറിയുന്നു ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഇന്റർനെറ്റ് ഉറവിടങ്ങളെയും നോക്കി സംശയനിവാരണം നടത്തുന്നു ഒരു നല്ല ഉറവിടം ഇന്റർനെറ്റ് ഉറവിടത്തെയും വ്യാഖ്യാനിക്കുന്നു അതിനർത്ഥം ഇന്റർനെറ്റ് ഉറവിടം ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏത് ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വ്യാഖ്യാനിക്കുന്നതിലൂടെ വിദ്യാർത്ഥിക്ക് ഇത് കൂടുതൽ സൌകര്യപ്രദമാക്കുകയാണ് ചിലപ്പോൾ ഒരു അധ്യാപകൻ ഒരു പാഠപുസ്തകത്തിലോ ഇന്റർനെറ്റ് ഉറവിടത്തിലോ ലഭ്യമായതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചേക്കാം അത്തരം സാഹചര്യങ്ങളിൽ അധ്യാപകൻ ചില സാമഗ്രികൾ തയ്യാറാക്കുകയും മറ്റ് ഉറവിടങ്ങളിൽ നിന്ന് ലഭ്യമായ പഠനസാമഗ്രികൾ കൊണ്ട് കുറവ് നികത്തുകയും ചെയ്യുന്നു സാമാന്യമായി പഠനസാമഗ്രികൾ ഒന്നുകിൽ ഒരു ഉറവിടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയോ ഇൻസ്ട്രക്ടറിനാൽ അനുബന്ധമായി തയ്യാറാക്കുകയും ചെയ്യുന്നവയാണ് നാം പ്രധാനമായും നിർദ്ദേശസാമഗ്രികളാണ് നോക്കുന്നത് വികസന ഘട്ടം ഞങ്ങൾ ഇനി പറയുന്ന പ്രവർത്തനങ്ങളോ ഉപപ്രക്രിയകളോ നിർദ്ദേശിക്കുന്നു ഡെലിവറി സാങ്കേതികവിദ്യകളുടെ തിരഞ്ഞെടുക്കൽ ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നത് നിർദ്ദേശതരം തിരഞ്ഞെടുക്കൽ നിർദ്ദേശസാമഗ്രികളുടെ വികസനം പഠനസാമഗ്രികളുടെ തിരിച്ചറിയൽ തിരഞ്ഞെടുക്കൽ തയ്യാറാക്കൽ മറ്റും എല്ലാ വികസനഘട്ട ഔട്ട്പുട്ട്കളുയു൦ കൂട്ടാളികളുടെ വിലയിരുത്തൽ നമുക്ക് ഡെലിവറി സാങ്കേതികവിദ്യകൾ നോക്കാം ഇനിയും നിരവധി സമ്മിശ്രണങ്ങൾ സാധ്യമായേക്കാം ചില ഡെലിവറി സാങ്കേതികവിദ്യകൾ ഇവയാണ് ബ്ലാക്ക്ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡ് ഉള്ള ക്ലാസ് റൂം എൽസിഡി പ്രൊജക്ടറുള്ള ക്ലാസ് റൂം നിങ്ങൾക്ക് ഒരു ബ്ലാക്ക്ബോർഡ് അല്ലെങ്കിൽ ഒരു എൽസിഡി പ്രൊജക്ടറിനൊപ്പം വൈറ്റ് ബോർഡ് ഉണ്ടായിരിക്കാം മുമ്പത്തെ സാങ്കേതികവിദ്യകളും നാം താഴെ തലത്തിലേക്ക് ഇറങ്ങിയാൽ ലഭ്യമാണ് അതിനർത്ഥം എനിക്ക് ഒരുഎൽസിഡി പ്രൊജക്ടറുള്ളക്ലാസ് റൂം ഉണ്ടെങ്കിൽ സാധാരണയായി നിങ്ങൾക്ക് ബ്ലാക്ക് ബോർഡിലേക്കോ വൈറ്റ് ബോർഡിലേക്കോ ലഭ്യത ഉണ്ട് എൽസിഡി പ്രൊജക്ടറുള്ള ഇലക്ട്രോണിക് ക്ലാസ് റൂം ലാപ്ടോപ്പ് സ്മാർട്ട് ഫോണുകളുള്ള വിദ്യാർത്ഥികൾ പഠന മാനേജ്മെന്റ് സംവിധാനമുള്ള ഇലക്ട്രോണിക് ക്ലാസ് മുറികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കോമ്പിനേഷനുകൾ ഉണ്ടായിരിക്കാം അവിടെ നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങൾക്ക് ഒരു വീഡിയോയായി റെക്കോർഡുചെയ്യാനും വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവ നേടാനും കഴിയും എന്നാൽ പലയിടത്തും നടപ്പാക്കലിനായി തയ്യാറായി പരിഗണിക്കാവുന്ന സാങ്കേതികവിദ്യകൾ ആണിത് ഡെലിവറി ടെക്നോളജിയിലേക്കുള്ള തിരഞ്ഞെടുക്കലും വഴിയും തീരുമാനിക്കുമ്പോൾ നിർദ്ദേശവും നിങ്ങൾ തയ്യാറാക്കുന്ന നിർദ്ദേശസാമഗ്രികളും വളരയധിക൦ സ്വാധീനക്കപെടുന്നു പൂർണ്ണമായും 80 ശതമാനത്തിൽ കൂടുതൽ അധ്യാപകരും ഇന്നും ബ്ലാക്ക് ബോർഡ് ആണ് ഉപയോഗിക്കുന്നത് സംസാരിച്ചുകൊണ്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ സ്വന്തമായി തയ്യാറാക്കി പല സ്ഥലങ്ങളിലും കൂടുതലായ വ്യാഖ്യാനങ്ങൾ എഴുതിയ സാമഗ്രികൾ ആയിരിക്കാം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ടീച്ചർ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസുകളിൽ പുതുമ വരുത്താറുണ്ട് അതിനർത്ഥം വിദ്യാർത്ഥിയുമായുള്ള ചർച്ചയെ അടിസ്ഥാനമാക്കി അവർ ഇതിനകം തയാറാക്കിയ സാമഗ്രിയിൽ നിന്നും അല്പം വ്യതിചലിച്ച് ആ പോയിന്റിൽ നിന്നും ഏറ്റെടുത്ത് പുറത്തെടുത്ത് സമഗ്രപഠനം നടത്താൻ താൽപ്പര്യപ്പെട്ടേക്കാം കുറിപ്പുകളൊന്നും എടുക്കാത്ത ചില അധ്യാപകരുണ്ട് അവർക്ക് വിഷയം വളരെ പരിചിതമാണ് സാഹചര്യത്തെ ആശ്രയിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവർ ഓരോ തവണയും വ്യത്യസ്ത പാതയിലേക്ക് പോകും ഫാക്കൽറ്റിയിൽ വളരെ ചെറിയ ശതമാനം മാത്രമേ അത് സുഖപ്രദം ആയി കരുതുന്നുള്ളൂ നിങ്ങളുടെ പ്രത്യേക ഡെലിവറി സാങ്കേതികവിദ്യയുടെ തിരഞ്ഞെടുപ്പ് നിർദ്ദേശത്തെ വളരെയധികം സ്വാധീനിക്കും ഇപ്പോൾ ലഭ്യമായ ഐസിടി ഉപകരണങ്ങൾ നിരവധി സാധ്യതകൾ തുറക്കുന്നു ടീച്ചർ സമഗ്രപഠനം നടത്തുകയും നെറ്റിൽ ലഭ്യമായവയിൽ നിന്നും കടമെടുക്കാൻ ശ്രമിക്കുകയും അവരുടെ കോഴ്സിന് അനുസരിച്ചതരത്തിലുള്ള ഏത് ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്ന് കാണുകയും ചെയ്യുന്നു ഇത് പരിഷ്കരിച്ച പഠനസാമഗ്രികൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാൻ അധ്യാപകനെ പ്രാപ്തമാക്കുന്നു അതിനർത്ഥം ടീച്ചർക്ക് ഇപ്പോൾ ചില വിലകളിൽ ലഭ്യമാകുന്ന ഈ ബുക്കുകളിൽ നിന്നും ഭാഗങ്ങൾ എടുത്തുകൊണ്ട് സ്വന്തമായി തയ്യാറാക്കിയ സാമഗ്രികളോട് കൂട്ടിയോജിപ്പിച്ചു കൊണ്ട് അത് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും പഠന സാമഗ്രികളുടെ ആ ക്യൂറേഷനിലൂടെയാണ് അധ്യാപകന്റെ അടയാളം വരുന്നത് സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ഇവയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും നിർദ്ദേശം സാങ്കേതികവിദ്യയുമായി ക്രമീകരിക്കണം അതായത് അധ്യാപകൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അനുസരിച്ച് ക്ലാസ് മുറികളിൽ വിദ്യാർഥികളുമായി ഉള്ള ആശയവിനിമയരീതികൾ മാറ്റേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഈ സാങ്കേതികവിദ്യകൾ നൽകുന്നതരത്തിലുള്ള ഗുണങ്ങൾ അധ്യാപകനു ലഭിക്കില്ല അതാണ് ഡെലിവറി സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് ഒരാൾ ഓർമ്മിക്കേണ്ടത് നമുക്ക് ഓരോ സാങ്കേതിക വിദ്യ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡ് നോക്കാം ഈ സാങ്കേതിക വിദ്യ പുരാതനവും പ്രചാരത്തിൽ ഉള്ളതുമാണ് ബ്ലാക്ക് ബോർഡ് സാങ്കേതികവിദ്യ 150 160 വർഷത്തിലധികമോ പത്തൊൻപതാം നൂറ്റാണ്ടിലോ പതിനെട്ടാം നൂറ്റാണ്ടിലോ തൊട്ട് ഉണ്ടായിരുന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം അദ്ധ്യാപകൻ സാധാരണയായി പിന്തുടരുന്ന വേഗതയും ക്രമവും പുതിയ വിവരങ്ങൾ കൈമാറുന്നതുമായി സമന്വയിപ്പിക്കുന്നു എന്നതാണ് നിങ്ങൾ ബോർഡിൽ എഴുതുമ്പോൾ വിദ്യാർത്ഥിക്ക് പിന്തുടരാനും മനസ്സിലാക്കാനും ആന്തരികവൽക്കരിക്കാനും മതിയായ സമയമുണ്ട് കൂടാതെ അധ്യാപകൻ ബോർഡിൽ എഴുതുമ്പോഴൊക്കെ വിദ്യാർത്ഥി തന്റെ ക്ലാസ് നോട്ടുകളിൽ ഇതിൽ എഴുതുന്നത് പതിവാണ് ആ സാമഗ്രികൾ ടെക്സ്റ്റ് ബുക്ക് സാമഗ്രികളുമായി വളരെ സാമ്യമുള്ളതാകാമെങ്കിലും അവർ ഒരു പ്രത്യേക വേഗതയിൽ ശ്രദ്ധിക്കുകയും ടീച്ചർ ബോർഡിൽ എഴുതിയത് സ്വന്തം കൈകൊണ്ട് എഴുതുകയും ചെയ്യുന്നു ഇതിൽ സാധ്യമായ ചില സമന്വയമുണ്ട് അതാണ് ഏറ്റവും വലിയ നേട്ടം എന്നാൽ ഇതിന് മറ്റ് നിരവധി പരിമിതികളും ഉണ്ട് ഉദാഹരണത്തിന് സങ്കീർണ്ണമായ ഒരു ചിത്രം വരയ്ക്കാൻ ചില ഫാക്കൽറ്റി അംഗങ്ങൾക്ക് നല്ല ഡ്രോയിംഗ് കഴിവുകൾ ഉണ്ടായിരിക്കാം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും പക്ഷേ പൊതുവായി ഒന്നുകിൽ ഇത് ക്ലാസ് മുറിയിൽ വളരെയധികം സമയമെടുക്കും അല്ലെങ്കിൽ അവർ തൃപ്തികരമായി വരയ്ക്കില്ല ഈ പ്രക്രിയയിൽ നിങ്ങൾക്ക് നിരവധി പിശകുകൾ ഉണ്ടായേക്കാം മാത്രമല്ല ആ പിശകുകൾ വിദ്യാർത്ഥിയും തുടരും അതിനർത്ഥം സങ്കീർണ്ണമായ ഡയഗ്രാമുകളും ചിലതരം ക്രോസ് സെക്ഷണൽ ചിത്രങ്ങളും മറ്റും കൈകാര്യം ചെയ്യുമ്പോൾ തെറ്റായ ആശയവിനിമയം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എന്നാൽ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് പ്രധാനമായും ഗണിതശാസ്ത്ര കോഴ്സുകൾക്ക് അനുയോജ്യമാണ് നിങ്ങൾക്ക് നിരവധി സങ്കീർണമായ സമവാക്യങ്ങൾ എഴുതാൻ ഉള്ളപ്പോൾ അവിടെ ഇതുപോലെ മറ്റൊരു സുഖപ്രദമായ രീതി ഇല്ല വിവരണാത്മകകോഴ്സുകളുടെ കാര്യം വരുമ്പോൾ ബ്ലാക്ക്ബോർഡ് രീതി പ്രത്യേകിച്ച് മികച്ചതല്ല വിവരണാത്മക കോഴ്സുകളിൽ ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം സൂചകപദങ്ങൾ അധ്യാപകന് ബോർഡിൽ എഴുതാൻ കഴിയും എന്നതാണ് തുടർന്ന് വിദ്യാർത്ഥി വിശദാംശങ്ങൾ പൂരിപ്പിക്കാൻ ആരംഭിക്കണം വിദ്യാർത്ഥി സ്വന്തം നിരീക്ഷണങ്ങൾ എഴുതുമ്പോഴാണ് പ്രശ്നം അവ അധ്യാപകൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുമായി സമന്വയിപ്പിക്കപ്പെടാറില്ല എന്നതാണ് അതിനാൽ ബ്ലാക്ക്ബോർഡ് തീർച്ചയായും ഗണിത കോഴ്സുകൾക്ക് സൌകര്യപ്രദമാണ് അതിന് ഗുണമുണ്ട് നാം ഇത് വളരെക്കാലമായി ഉപയോഗിക്കുന്നു ആർക്കും ഇതിനെ എതിർക്കാൻ കഴിയില്ല പക്ഷേ ഇതിന് നിരവധി പരിമിതികളുണ്ട് പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അവയിൽ സങ്കീർണ്ണമായ ടൈമിംഗ് ഡയഗ്രമുകൾ സങ്കീർണ്ണമായ ബ്ലോക്ക് ഡയഗ്രമുകൾ തുടങ്ങിയവ വരയ്ക്കേണ്ടതുണ്ട് സ്മാർട്ട് ബോർഡ് മറ്റ് വ്യതിയാനം ഇത് അവതരിപ്പിച്ച സാമഗ്രികൾ ബോർഡിൽ ഒരു ചിത്രമായി പകർത്താൻ അധ്യാപകനെ പ്രാപ്തമാക്കുന്നു നിങ്ങൾ ബോർഡിൽ എന്ത് എഴുതിയാലും അത് ഒരു ചിത്രമായി പകർത്തി ഈ നാളുകളിൽ ഇമെയിലുകൾ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് വഴി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാം സാമഗ്രികൾ ഒരു വൈറ്റ് ബോർഡിലേക്ക് സ്ലൈഡുകളായി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുകയോ കൂടുതലായ ഒരു വിവരണം ചേർക്കുകയോ ഒരു ചെറിയ ഡയഗ്രം ചേർക്കുകയോ എന്തെങ്കിലും അടിവരയിടുകയോ തുടങ്ങിയവയിലൂടെ അധ്യാപകനെ ആ സാമഗ്രികളുമായി സംവദിക്കാൻ അനുവദിക്കുന്നു മുഴുവൻ സ്ലൈഡുകളും മുകളിൽ എഴുതിയ അഭിപ്രായങ്ങളും ഒരു ഇമേജിൽ പകർത്തി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാം ക്ലാസ് മുറിയിൽ നടത്തിയ രീതിയിൽ തന്നെ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു സ്മാർട്ട് ബോർഡുകൾ വന്നപ്പോൾ അതിന് ചുറ്റും വളരെയധികം അമിത പ്രചാരങ്ങൾ ഉണ്ടായിരുന്നു പലരും വാങ്ങിയെങ്കിലും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് പലസ്ഥലങ്ങളിലും അതിന്റെ ഉപയോഗം അത്രയ്ക്ക് ജനപ്രിയമായിട്ടില്ല എൽസിഡി പ്രൊജക്ടർ ഉള്ള ക്ലാസ് റൂം ഇവിടെ അധ്യാപകന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബ്ലാക്ക് ബോർഡോ വൈറ്റ്ബോർഡോ ഉണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ആദ്യം അത് ഏകോപിപ്പിച്ച് വിവരം മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ടീച്ചറെ അനുവദിക്കുകയും സങ്കീർണ്ണചിത്രങ്ങൾ ഉടനടി കാണിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്യുന്നു ഇത് എൽസിഡി പ്രൊജക്ടറിന്റെ പ്രധാന നേട്ടമാണ് നേരത്തെ ഓവർഹെഡ് പ്രൊജക്ടറുകൾ ഉണ്ടായിരുന്നു സ്ലൈഡുകൾ തയ്യാറാക്കുന്നത് വളരെ സങ്കീർണ്ണവും ചെലവേറിയതുമായ പ്രക്രിയയായിരുന്നു തുടർന്ന് സ്ലൈഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സ്ലൈഡ് ഉപേക്ഷിച്ച് പുതിയ സ്ലൈഡ് തയ്യാറാക്കേണ്ടതുണ്ട് പക്ഷേ ആ യുഗം പോയി എൽസിഡി പ്രൊജക്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക് രീതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ സ്ലൈഡുകളിൽ മാറ്റം വരുത്താൻ കഴിയും നിങ്ങൾക്ക് സങ്കീർണ്ണമായ വിവരങ്ങൾ പല തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയും എന്നതാണ് പ്രധാന നേട്ടം എല്ലാത്തിലും ഉപരിയായി അവതരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിശ്ചലചിത്രങ്ങൾ ആനിമേഷനുകൾ സിമുലേഷനുകൾ എല്ലാം ഉൾപ്പെടുത്താം സാധാരണയായി നിങ്ങൾ സ്ലൈഡിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പിസി ഉപയോഗിച്ച് സാമഗ്രികൾ പ്രൊജക്റ്റു ചെയ്യുന്നു നിങ്ങൾക്ക് ലാപ്ടോപ്പുകൾ ഉള്ളതിനാൽ ചലനാത്മകമായ സിമുലേഷനുകൾ ചെയ്യാൻ കഴിയും അതിനർത്ഥം എനിക്ക് പാരാമീറ്ററുകൾ മാറ്റാനും സിമുലേറ്റ് ചെയ്യാനും സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിക്കാനും കഴിയും സ്ലൈഡുകൾ നേരിട്ട് അവതരിപ്പിക്കുകയോ ഡോക്ക് അല്ലെങ്കിൽ പിഡിഎഫ് ഫോർമാറ്റിലേക്ക് പരിവർത്തനം ചെയ്ത് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാം ഇവിടെയാണ് പരിമിതികൾ വരുന്നത് വിവരങ്ങൾ കൈമാറുന്ന വേഗത വിദ്യാർത്ഥികളെ മാനസികമായി ഇടക്ക് വച്ച് നിർത്താൻ പ്രേരിപ്പിക്കും ചില കാരണങ്ങളാൽ നിങ്ങൾ വിദ്യാർത്ഥിക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നതിനേക്കാൾ അൽപ്പം വേഗതയുള്ളവരാകാൻ സാധ്യതയുണ്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ വേഗത നിലനിർത്താൻ വിദ്യാർത്ഥിക്ക് കഴിയുന്നില്ലെങ്കിൽ അവൻ മാനസികമായി ഉപേക്ഷിക്കും ഒരു വൈറ്റ്ബോർഡിലും ഇത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും എന്നാൽ വിവരങ്ങൾ ഇതിനകം ക്യൂറേറ്റ് ചെയ്യുകയും പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് അവൻ അല്ലെങ്കിൽ അവൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ സാമഗ്രിയിലൂടെ കടന്നുപോകുന്ന പ്രവണതയുണ്ട് ഈ പ്രശ്നം എളുപ്പത്തിൽ അൽപം പരിശീലനത്തിലൂടെ മറികടക്കാം വിദ്യാർത്ഥികൾ പിന്തുടരുന്നുവെന്ന് നിങ്ങൾ കരുതുന്ന വേഗതയിൽ സാമഗ്രികൾ നൽകുന്നതിന് കഴിയും മറ്റൊരു പ്രശ്നം നിരവധി ആളുകൾക്ക് സ്ലൈഡുകൾ നിറച്ചു വെക്കുവാൻ ഉള്ള പ്രവണതയുണ്ട് അതായത് ഒരു സ്ലൈഡിലേക്ക് ധാരാളം എഴുതുക എന്നത് ഇൻസ്ട്രക്ടർ സ്ക്രീനിൽ നോക്കുകയും വിദ്യാർത്ഥികളെ പോലും അഭിമുഖീകരിക്കാതെ സാമഗ്രികൾ വായിക്കുന്നത് തുടരുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികളെ നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സാങ്കേതികവിദ്യയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ടെങ്കിൽ പോലും കുറച്ചു ബുദ്ധിമുട്ടി ഒരാൾക്ക് ഗണിതശാസ്ത്രവിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് സ്വീകരിക്കുവാൻ കഴിയും ചിലതരം ആനിമേഷനുകൾ സ്ലൈഡുകളിലേക്ക് സൃഷ്ടിക്കാൻ സാധ്യമാണ് അതുവഴി സാമഗ്രികൾ രസകരമായ ഒരു ശ്രേണിയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ വേഗത കുറച്ച് വിദ്യാർത്ഥിക്ക് പിന്തുടരാൻ സാധൃമാക്കുന്നു എന്നാൽ അമിതമായി എഴുതിയ സ്ലൈഡുകൾ തീർച്ചയായും വിദ്യാർത്ഥികളെ നിരുത്സാഹപ്പെടുത്തും തിങ്ങി നിറഞ്ഞ സ്ലൈഡുകൾ ഉള്ള ഒരു സെമിനാറിലേക്കോ അവതരണത്തിലേക്കോ പോകുമ്പോഴെല്ലാം ഇത് സംഭവിക്കുന്നു സാമഗ്രികൾ പിന്തുടരുന്നത് വെല്ലുവിളിയായി മാറുന്നു ഇലക്ട്രോണിക് ക്ലാസ്റൂം ഒരുപടി മുകളിലാണ് സാമഗ്രികളുമായി വിദ്യാർത്ഥികളുടെ ഇടപഴകൽ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇലക്ട്രോണിക് ക്ലാസ് റൂമിന് കഴിയും എന്താണ് ഒരു ഇലക്ട്രോണിക് ക്ലാസ് റൂം ഇതിന് ഒരു എൽസിഡി പ്രൊജക്ടർ ഉണ്ടാകും വൈഫൈ വഴി ഇന്റർനെറ്റിലേക്കുള്ള കണക്ഷൻ അധ്യാപകൻ ഒരു ലാപ്ടോപ്പ് സ്വന്തമായി ഉപയോഗിക്കുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ടാബ്ലെറ്റുകൾ എന്നിവ ഉപയോഗിക്കാം ബ്ലാക്ക്ബോർഡ് സമീപനത്തിൽ സംഭവിക്കാൻ കഴിയാത്ത ഒരു പ്രധാനകാര്യം അധ്യാപകന് ഒരു ചോദ്യം ചോദിക്കാനും എല്ലാ വിദ്യാർത്ഥികളെയും അതിനോട് പ്രതികരിപ്പിക്കുക എന്നതാണ് പ്രതികരണങ്ങൾ നന്നായി ക്രമീകരിക്കുക വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും വിചിത്രമായ പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഈ പ്രശ്നം വ്യക്തമായി മനസ്സിലാകുന്നില്ല അധ്യാപകന് അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാനും ചർച്ച ചെയ്യാനും കഴിയും ചോദ്യങ്ങൾ ചോദിക്കാനും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സാധാരണ ക്ലാസ് മുറിയിൽ സംഭവിക്കാൻ കഴിയാത്തവിധം പ്രതികരിക്കാനും കഴിയും കാരണം 2 അല്ലെങ്കിൽ 3 പേർ മാത്രമേ സാധാരണ ക്ളാസ് മുറിയിൽ പ്രതികരിക്കുകയുള്ളൂ നിങ്ങൾക്ക് വിദ്യാർത്ഥികളെ കൊണ്ട് ഒരു പ്രശ്നം സിമുലേറ്റ് ചെയ്യിപ്പിക്കാനും സിസ്റ്റത്തിന്റെ സ്വഭാവത്തെ വ്യത്യസ്തപാരാമീറ്ററുകൾ ഉപയോഗിച്ച് സമഗ്രപഠനം നടത്തുവാനും കഴിയും എല്ലാ ബ്രാഞ്ചുകളിലെയും നിരവധി എഞ്ചിനീയറിംഗ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് അല്പം സങ്കീർണ്ണമായ സിസ്റ്റത്തിന്റെ സ്വഭാവം സിമുലേറ്റ് ചെയ്യാനും ഒരു പാരാമീറ്റർ മാറ്റുമ്പോൾ എന്തുസംഭവിക്കുമെന്നും ഔട്ട്പുട്ട് എങ്ങനെ മാറുന്നു വെന്നും മനസ്സിലാക്കേണ്ടി വരും ഏത് ചലനാത്മകസിസ്റ്റത്തിന്റെയും സ്വഭാവം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത് അദ്ധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഇവയ്ക്കെല്ലാം ഗണ്യമായ ആസൂത്രണവും പ്രവർത്തിക്കലും ആവശ്യമാണ് ഒപ്പം നിങ്ങൾ ക്ലാസ് നടത്തുമ്പോൾ സാങ്കേതികതകരാറുകൾ ഒന്നും തന്നെയില്ലെന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യണം എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുന്നില്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷനില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൊജക്ടറുമായുള്ള ലാപ്ടോപ്പ് കണക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത്തരം സാങ്കേതിക തകരാറുകൾ ഇലക്ട്രോണിക് ക്ലാസ് റൂമിന്റെ ഫലപ്രാപ്തിയെ നശിപ്പിക്കും ഈ പ്രശ്നം മറികടക്കാൻ അദ്ധ്യാപകൻ ഒരു ഇലക്ട്രോണിക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാം പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ ആണെന്ന് ഉറപ്പുവരുത്തണം ഇലക്ട്രോണിക് ക്ലാസ് റൂമിലേക്ക് ഒരു ലേണിങ് മാനേജ്മെൻറ് സിസ്റ്റം ചേർക്കുക ഒരു അക്കാദമിക് മാനേജുമെന്റ് സംവിധാനം പോലും ചേർക്കാൻ കഴിയും ഉദാഹരണത്തിന് എൽഎംഎസിനായി നിങ്ങൾക്ക് പരിചിതമായ MOODLE ഉണ്ട് അത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറാണ് നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി MOODLE ഉപയോഗിക്കാൻ തുടങ്ങി പ്രധാനമായും MOODLE അധ്യാപകനെ വളരെയധികം സമയം നഷ്ടപ്പെടുത്താതെ വിദ്യാർത്ഥികളുമായി ഇടപഴകുന്ന നിരവധി പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു പക്ഷേ ഇതിന് വ്യക്തമായും ധാരാളം ആസൂത്രണം ആവശ്യമാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ക്വിസ് നടത്താം ക്വിസ് തന്നെ സംഘടിപ്പിക്കാനും നടത്താനും എൽഎംഎസ് ഉപയോഗിച്ച് കഴിയും കൂടാതെ വേഗത്തിൽ പ്രതികരണങ്ങൾ ശേഖരിക്കാനും കഴിയും ഒരു ക്വിസ് നടത്തിയ ശേഷം നിങ്ങൾക്ക് ഉടനടി ഫീഡ്ബാക്ക് നൽകാൻ കഴിയും അത് എല്ലാവരേയും അറിവുമായി ഇടപഴകിക്കുന്നതിനുള്ള ഒരു അത്ഭുതകരമായ സംവിധാനമാണ് എല്ലാ വിദ്യാർത്ഥികളെയും പ്രതികരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ആരെങ്കിലും പ്രതികരിക്കുന്നില്ലെങ്കിൽ എൽഎംഎസും പെട്ടെന്ന് തിരിച്ചറിയും ഒരു ക്വിസ് നടത്താനും ഫീഡ്ബാക്ക് നൽകാനും എൽഎംഎസ് ഉപയോഗിക്കുന്നത് അധ്യാപകന് വളരെയധികം സഹായിക്കുന്നു ഒരു ക്വിസ് നടത്തുന്ന പ്രക്രിയ തന്നെ എല്ലാ വിദ്യാർഥികളെയും പങ്കെടുപ്പിക്കുകയും അവരെ അറിവുമായി ഇടപഴക്കുകയും ചെയ്യും വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അമിതപരിശ്രമമില്ലാതെ ശേഖരിക്കാനും എൽഎംഎസ് അധ്യാപകരെ പ്രാപ്തമാക്കും കാരണം ആ വിവരങ്ങളെല്ലാം എല്ലായ്പ്പോഴും ലഭ്യമാണ് വിദ്യാർത്ഥി ഒരു അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് എന്തു ചെയ്തുവെന്നതിനെക്കുറിച്ചും അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നതിനെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ലഭ്യമാണ് എല്ലാം ഫാക്കൽറ്റിക്ക് വേഗത്തിൽ ലഭ്യമാണെങ്കിൽ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് അദ്ദേഹത്തിന് അറിയാം വിദ്യാർത്ഥികളുടെ പ്രകടനത്തിന്റെ ഗതി നിരീക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിയും ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി എൻബിഎ അല്ലെങ്കിൽ എൻഎഎസിക്ക് ആവശ്യമായ ഡോക്യുമെന്റേഷൻ സൃഷ്ടിക്കാൻ പുതിയ നടപടി ക്രമങ്ങൾ എൽഎംഎസ് അധ്യാപകനെ പ്രാപ്തമാക്കുന്നു ഒരു ക്ലറിക്കൽ പ്രവർത്തനമായി അധ്യാപകർ കരുതുന്ന കണക്കുകൂട്ടലുകളും ഫോം പൂരിപ്പിക്കലുകളും മറ്റും അവരുടെ ഒരുപാട് സമയം അപഹരിക്കുന്നു ഒരു എൽഎംഎസ് അല്ലെങ്കിൽ എഎംഎസ് അക്കാദമിക് മാനേജുമെന്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം മുഴുവൻ ലാഭിക്കാൻ കഴിയും നാം പലതരത്തിലുള്ള ഡെലിവറി സാങ്കേതികവിദ്യകൾ കണ്ടു ഒരു ഡെലിവറി സാങ്കേതികവിദ്യ തിരഞ്ഞെടുത്തതിനു ശേഷം മാത്രമേ അവർക്ക് ഉപയോഗിക്കേണ്ടുന്ന നിർദ്ദേശസാമഗ്രികൾ തയ്യാറാക്കാൻ കഴിയൂ മറ്റ് സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുമ്പോൾ ലളിതമായ കുറിപ്പുകൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന സാമഗ്രികൾ എന്നിവ ഉപയോഗിക്കാൻ കഴിയില്ല നിർദ്ദേശതരങ്ങൾ നിർദ്ദേശസാമഗ്രികളുടെ വികസനം തിരഞ്ഞെടുക്കുന്ന നിർദ്ദേശതരങ്ങളെ ആശ്രയിച്ചിരിക്കും നിർദ്ദേശ തരം എന്താണ് അതിന്റെ ജനപ്രിയമായ നാല് ഉദാഹരണങ്ങൾ നമുക്ക് നൽകാം ക്ലാസ് മുറിയിലെ മുഖാമുഖ നിർദ്ദേശം അതാണ് എല്ലാവർക്കും പരിചിതമായത് അതിനർത്ഥം നിങ്ങൾ ചില സൌകര്യങ്ങളുള്ള ഒരു ക്ലാസ് മുറിയിലേക്ക് ശാരീരികമായി പോകുന്നു അധ്യാപകരും ഒപ്പം വിദ്യാർത്ഥികളും മുഖാമുഖം കാണുന്നു മിശ്രിത പഠനം ഫ്ലിപ്പുചെയ്ത ക്ലാസ് റൂം ഓൺലൈൻ കോഴ്സ് ആ ഓൺലൈൻ കോഴ്സിന്റെ അടുത്ത പതിപ്പ് ഒരു MOOC ആണ് ഇത് നിങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തരം നിർദ്ദേശമാണ് മുഖാമുഖം നിർദ്ദേശങ്ങളാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത് അതിന് ഏത് ഡെലിവറി സാങ്കേതികവിദ്യയും ഉപയോഗിക്കാം അധ്യാപക വിദ്യാർത്ഥി ഇടപെടൽ ക്ലാസ് മുറിയിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് റോളുകൾ വഹിക്കാൻ കഴിയും ഇത് വിദ്യാർത്ഥികളുമായി സംവദിക്കാനുള്ള അധ്യാപകന്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്നു ക്ലാസ് മുറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ പരസ്പരം ഇടപഴകുന്നു പഠന സമൂഹങ്ങൾ ക്ലാസിനു ശേഷം സ്വാഭാവികമായും കൂടുതൽ കാര്യക്ഷമമായും സൃഷ്ടിക്കപ്പെടുന്നു ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും ക്ലാസ്സിൽ നടന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അവരുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും പൊതുവായി 4 6 ആളുകളുടെ ഗ്രൂപ്പാണ് രൂപപ്പെടുന്നത് ഇത് വളരെ ആരോഗ്യകരമായ ഒരു കാര്യമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഇപ്പോൾ പോലും ഇത്തരത്തിലുള്ള നിർദ്ദേശവുമായി മാത്രം ബന്ധപ്പെടുന്നു മുഖാമുഖമല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എങ്ങനെയെങ്കിലും പൊടുന്നനെ എന്തോ ശരിയല്ലെന്ന് തോന്നാം ഇതിൽ നിന്നുള്ള ഏതെങ്കിലും വ്യതിയാനം എളുപ്പത്തിൽ സ്വീകാര്യമല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു നിർദ്ദിഷ്ട തടസ്സം മറികടക്കേണ്ടതുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ആ മുഖാമുഖനിർദ്ദേശങ്ങളെക്കാൾ വ്യക്തമായ ഗുണങ്ങൾ കാണിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ തടസ്സം മറികടക്കാൻ കഴിയൂ ഇതിന് ധാരാളം തയ്യാറെടുപ്പ് ജോലികൾ ആവശ്യമാണ് മിശ്രിത പഠനം പരമ്പരാഗതമായ സ്ഥലാധിഷ്ഠിതമായ ക്ലാസ് മുറികളെ ധാരാളം ഓൺലൈൻ സാമഗ്രികൾ കൊണ്ടും ഓൺലൈൻ ആശയവിനിമയത്തിനുള്ള അവസരങ്ങൾ കൊണ്ടും സംയോജിപ്പിക്കുന്നു അതിനർത്ഥം വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് മുറിയിലേക്ക് പോകുന്ന മുഖാമുഖം കൂടാതെ ഒരു അധ്യാപകൻ ധാരാളം ഓൺലൈൻ സാമഗ്രികളുമായി അവിടെയെത്തുന്നു ഓൺലൈനിൽ ആശയവിനിമയം നടത്താനുള്ള അവസരവും ലഭിക്കുന്നു നിങ്ങൾ ഇഷ്ടിക കുമ്മായക്കൂട്ട് ഇവ ഉപയോഗിച്ചുള്ള ഉള്ള ക്ലാസ്സ് മുറികളിലേക്ക് പോകുന്നതു കൊണ്ട് വിദ്യാർഥികൾക്കും അധ്യാപകർക്കും അവർക്കു മുമ്പുണ്ടായിരുന്ന സൌഖ്യം അനുഭവപ്പെടുന്നു എന്നാൽ മിശ്രിത പഠനം നിങ്ങൾ ക്ലാസ്റൂമിനുള്ളിൽ ഇടപഴകുന്ന മണിക്കൂറുകളുടെ എണ്ണം കുറയ്ക്കുന്നു മുഖാമുഖ സെഷനുകൾ കുറച്ചുകൂടി കുറയുന്നു ഉദാഹരണത്തിന് ആഴ്ചയിൽ നാല് പ്രഭാഷണ മണിക്കൂർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തുടക്കത്തിൽ ഞാൻ പ്രഭാഷണ സമയങ്ങളുടെ എണ്ണം 2 ആയി കുറയ്ക്കാം ശേഷിക്കുന്ന രണ്ട് മണിക്കൂറുകളിൽ വിദ്യാർത്ഥികൾ അവരുടെ പഠനവും ഗൃഹപാഠവും ഓൺലൈനിൽ ചെയ്യണം തീർച്ചയായും ഇതിന് വിദ്യാർത്ഥികൾ മുൻകൈ എടുക്കണം ക്ലാസ്സിൽ വരുന്നതിനു മുമ്പ് സാമഗ്രികൾ അവർ വായിക്കണം ചിലപ്പോൾ അധ്യാപകർ ക്ലാസ് മുറിയിൽ ചില വ്യത്യസ്ത ആശയങ്ങൾ വിശദീകരിച്ചേക്കാം പക്ഷേ ധാരാളം ജോലികൾ ഓൺലൈനിൽ ചെയ്യേണ്ടിവരും ഈ രീതിയിൽ മുഴുവൻ സമയം മുഖാമുഖപഠനമോ ഓൺലൈൻ പഠനമോ നടത്തുന്നതിനേക്കാൾ വിദ്യാർത്ഥികളുടെ പ്രകടനം വളരെ മെച്ചമായി കണ്ടുവരുന്നു ഇതിനർത്ഥം പൂർണ്ണമായും ഓൺലൈനിൽ ചില പരിമിതികളുണ്ട് നാം കാണുന്നത് പോലെ കൂടാതെ മുഖാമുഖപഠന അനുഭവങ്ങൾക്കും അവരുടേതായ പരിമിതികളുണ്ട് മിശ്രിത പഠനത്തിലൂടെയുള്ള നിർദ്ദേശങ്ങൾ ധാരാളം ഗവേഷണ പശ്ചാത്തലങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതിലൂടെ വിദ്യാർത്ഥികൾ മികച്ച രീതിയിൽ പഠിക്കുന്നതായി തോന്നുന്നു മിശ്രിതപഠനത്തിൻറെ പരിഷ്കരിച്ച ഭാഷ്യമാണ് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം അതിനർത്ഥം നിങ്ങൾ പ്രധാനമായും ഫ്ലിപ്പ് ചെയ്യുന്നു എന്നാണ് സാധാരണയായി ക്ലാസ്സ് മുറികളിൽ എന്തെങ്കിലും വിശദീകരിക്കുകയും വിദ്യാർഥികളോട് അസൈൻമെൻറ് ക്ലാസ് മുറിക്ക് പുറത്ത് ചെയ്യാൻ പറയുകയും ആണ് ചെയ്യാറ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു ഈ ദിവസങ്ങളിൽ ഉള്ളടക്കം ഓൺലൈനിൽ എളുപ്പത്തിൽ ഡെലിവർ ചെയ്യാൻ കഴിയും മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഇൻറർനെറ്റ് ഉപകരണങ്ങളിലൂടെ പഠന സാമഗ്രികൾ ലഭ്യമാണ് ഇവിടെ ക്ലാസ് റൂമിന് പുറത്ത് സാമഗ്രികൾ പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർക്ക് വീഡിയോകൾ നോക്കാൻ കഴിയും സാമഗ്രികൾ വായിക്കാനും അല്ലെങ്കിൽ ടീച്ചർ തയ്യാറാക്കിയ സ്ലൈഡുകൾ നോക്കാനും കഴിയും പതിവായി ഗൃഹപാഠമായി കണക്കാക്കുന്നത് ക്ലാസ് മുറിയിലേക്ക് മാറ്റുന്നു അതിനർത്ഥം ക്ലാസ് റൂം ചർച്ചകൾക്കും ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മാത്രമായി ഉപയോഗിക്കുന്നു അത് ഫ്ലിപ്പ് ക്ലാസ് റൂമാണ് വീണ്ടും അതിന്റെ ഫലപ്രാപ്തി അദ്ധ്യാപകൻ വളരെയധികം ആസൂത്രണം ചെയ്യുന്നതിനെയും പങ്കെടുക്കാൻ തയ്യാറായ വിദ്യാർത്ഥികളെയും ആശ്രയിച്ചിരിക്കും ചില വിദ്യാർത്ഥികൾ കുട്ടിക്കാലം മുതൽ മുഖാമുഖം നിർദ്ദേശങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് എളുപ്പത്തിൽ സ്വീകാര്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ഇതിന് എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് പരാതിപ്പെടാം ഓൺലൈൻ കോഴ്സ് എല്ലാ അധ്യാപന പഠന പ്രവർത്തനങ്ങളും വിലയിരുത്തലുകളും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള മുഖാമുഖ ഇടപെടലുകളില്ലാതെ ഓൺലൈനിൽ ആണ് ചെയ്യുന്നത് നേരിട്ടുള്ള ഇടപെടലുകളൊന്നുമില്ല ഇടപെടൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലുള്ള വീഡിയോ സെഷനുകളിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് അത് അവരുടെ വേഗതയിൽ പഠിക്കാൻ കഴിയും അതായത് ഒരു പ്രത്യേക വീഡിയോ അവർക്ക് ആവശ്യമുള്ളത്ര തവണയോ സ്വന്തം സ്ഥലത്തോ അല്ലെങ്കിൽ സ്വന്തം വേഗതയിലോ കാണാൻ കഴിയും പല യൂണിവേഴ്സിറ്റികളിലും അവർ ഓൺലൈൻ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ കോഴ്സുകൾ ഒരു സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതേസമയം എൻപിടിഎല്ലിൻറെ കീഴിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കോഴ്സിലേക്ക് ആർക്കും ലോകത്ത് എവിടെയോ രാജ്യത്തോ പ്രവേശനം ലഭിക്കും എണ്ണം വലുതായിത്തുടങ്ങുമ്പോൾ മാത്രമാണ് പ്രശ്നം അധ്യാപക സഹായികളിലൂടെ ചിലതരം അധിക പിന്തുണ സൃഷ്ടിക്കേണ്ടതുണ്ട് ചില ചോദ്യങ്ങൾ വിദ്യാർഥികളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ അവ ധാരാളം ആണെങ്കിൽ ഫാക്കൽറ്റി അംഗങ്ങൾക്ക് വലിയ സംഖ്യകളുമായി ഇടപഴകുന്നത് ബുദ്ധിമുട്ടായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമായ ടീച്ചിംഗ് അസിസ്റ്റൻറ് പിന്തുണ എൻപിടിഎൽനേ പോലെ സൃഷ്ടിക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഡെലിവറി സാങ്കേതികവിദ്യയുടെ തെരഞ്ഞെടുപ്പും തരവും നിർദ്ദേശരൂപകൽപ്പനയെ സ്വാധീനിക്കും അത് അടുത്ത യൂണിറ്റിന്റെ വിഷയമാകും അടുത്ത യൂണിറ്റിൽ നിർദ്ദേശരൂപകല്പനയുടെ ആവശ്യകതയും നിർദ്ദേശസാമഗ്രികളും പഠനസാമഗ്രികളും വികസിപ്പിക്കുന്നതിൻറെ തിരഞ്ഞെടുപ്പിൽ അതിനുള്ള സ്വാധീനവും മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും വളരെയധികം നന്ദി